എല്ലാവർക്കും സ്വാഗതം ദുരന്ത മോചനവും മികച്ച രീതിയിലുള്ള പുനർ നിർമ്മിതിയും എന്ന പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ഫാക്കൽറ്റിയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കി ഇന്ന് വാസ്തുവിദ്യയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോകുന്നു അതിനാൽ ഇന്ന് സൈദ്ധാന്തിക ഘടകത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വിവിധതരം ഉദാഹരണങ്ങളുള്ള പ്രായോഗിക പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വാസ്തുവിദ്യ ഒരു ഡൊമെയ്നായി അത് സിദ്ധാന്തവുമായി എങ്ങനെ ചിന്തിക്കുന്നുവെന്നും ചർച്ചചെയ്യാൻ പോകുന്നു പ്രത്യേകിച്ചും ദുരന്താനന്തര വീണ്ടെടുക്കൽ പരിശീലനത്തിൽ ഒരു ദുരന്തം സംഭവിക്കുമ്പോഴെല്ലാം ജനങ്ങളുടെ ജീവിതത്തിന് മാത്രമല്ല അവരുടെ സ്വത്തുക്കൾക്കും നാഗരിക കെട്ടിടങ്ങൾക്കും മത കെട്ടിടങ്ങൾക്കും സമുദായങ്ങളുടെ സാംസ്കാരിക പൈതൃകത്തിനും വലിയ നഷ്ടം നേരിടുന്നു ഉദാഹരണത്തിന് ഈ ഫോട്ടോയിൽ നിങ്ങൾ കാണുന്നത് നേപ്പാളിലെ ദർബാർ സ്ക്വയറാണ് സമീപകാലത്തെ നേപ്പാൾ ഭൂകമ്പം യുനെസ്കോ പൈതൃകത്തിന് കീഴിലുള്ള ചരിത്രപരമായ പല കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റി ചരിത്രപരമായ ഈ കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിൽ ഇപ്പോൾ വളരെയധികം ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് കാഠ്മണ്ഡുവിലെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റിന് കീഴിൽ ലിസ്റ്റുചെയ്തിരിക്കുന്ന ഈ സ്ഥലം ഭക്തപൂർ എന്നാണ് അറിയപ്പെടുന്നത് 12 18 നൂറ്റാണ്ടുകളിലേക്കാണ് ഇത് പോകുന്നത് ഈ പ്രത്യേക സ്ക്വയർ പരമ്പരാഗതമായി കിരീടധാരണ ചടങ്ങുകൾക്കും മതപരമായ ഉത്സവങ്ങൾക്കും ഉപയോഗിച്ചിരുന്നു കൂടാതെ പല റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു അതിനാൽ അഭയകേന്ദ്രത്തിൽ എന്നുള്ളത് മാത്രമല്ല നഷ്ടപ്പെട്ട പൈതൃകം പുനർനിർമ്മിക്കുന്നതിനും പുനർനിർമ്മാണം ആവശ്യമാണെന്ന് വ്യക്തമായി 2003 ൽ ഇറാനിലെ ബാം ഭൂകമ്പം ഭൂകമ്പത്തിന് മുമ്പും ശേഷവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു വലിയ തകർച്ചയാണ് നിങ്ങൾക്ക് അവശിഷ്ടങ്ങൾ കാണാം ചരിത്രപരമായ സൈറ്റിൽ മുഴുവൻ അവശിഷ്ടങ്ങളും വീണു ഓരോ സ്മാരകത്തിനും വിലയുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്ന മുഴുവൻ പ്രക്രിയയും പുനർനിർമ്മിക്കാൻ ഒരു ദശകത്തിലേറെ സമയമെടുത്തു അല്ലെങ്കിൽ അതിന്റെ ഓരോ കെട്ടിടവും ഒരു വ്യാപാര ഉടമയാണോ ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യാപാരികളുടെ വീടാണോ അതോ ഏതെങ്കിലും നാഗരിക കെട്ടിടമാണോ അതോ ഏതെങ്കിലും കോട്ടയാണോ അതിനാൽ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം യഥാർത്ഥത്തിൽ മനസിലാക്കാനും അതിന്റെ ഭൌതികത മനസിലാക്കാനും അതിന്റെ ചരിത്രപരമായ സമഗ്രതയോടും ചരിത്രപരമായ സന്ദർഭത്തിനോടും കൂടി പ്രതിഫലിപ്പിക്കാനും വളരെ സമയം ആവശ്യമാണ് ഒരു വാസ്തുശില്പി ഒരു സാംസ്കാരിക ക്രമീകരണത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ദുരന്താനന്തര വീണ്ടെടുക്കലിൽ ഇത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടികളുടെ ഒരു ലിസ്റ്റ് കാണാൻ കഴിയും ഏതൊക്കെയാണ് സംസ്ഥാന സ്വത്തുക്കൾ സ്വകാര്യ സ്വത്തുക്കൾ അത് ഒരു കോട്ടയാണോ അത് ഒരു വാസസ്ഥലമാണോ ഒരു പള്ളിയാണോ അല്ലെങ്കിൽ മതപരമായ കെട്ടിടങ്ങളാണോ ഇതിൽ ഏതിനൊക്കെയാണ് ദേശീയ പൈതൃകത്തിന് കീഴിൽ ലിസ്റ്റുചെയ്തിട്ടുള്ളതിൽ ഈ ഭൂകമ്പത്തിൽ കേടുപാടുകൾ സംഭവിച്ചത് ജർമ്മൻ എൻജിഒകളിൽ നിന്നുള്ള വിവിധ സംഘടനകളുടെ സമീപകാല ശ്രമങ്ങൾ പുനർനിർമ്മാണത്തിനായി മുന്നോട്ട് വന്നു ഇറാൻ സർക്കാരും ജർമ്മൻ സർക്കാരും തമ്മിൽ ഒരുതരം സഹകരണമുണ്ട് കളിമൺ ഇഷ്ടികപ്പണികൾ ഉപയോഗിച്ച് ഒരു വ്യാപാരിയുടെ വീട് പുനർനിർമിച്ച ഏതാനും ഉദാഹരണങ്ങൾ പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി അവർ ഒരുതരം ഫൈബർ റീഇൻഫോഴ്സ്മെൻറ് ഉപയോഗിച്ചു ഭാവിയിൽ ഭൂകമ്പത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ബദൽ വസ്തുക്കളും ഉപയോഗിച്ചു അതിനാൽ അവർ എങ്ങനെ യഥാർത്ഥത്തിൽ ഈ മതിലുകളും ആർച്ചർ പുനർനിർമ്മിക്കുന്നു ചുവരുകൾ ഇവയാണ് അതേ രൂപത്തിൽ തന്നെ നിങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട് കാരണം ഏതൊക്കെ തരത്തിലുള്ള ബദൽ വസ്തുക്കളാണ് ആദ്യം ശേഖരിക്കേണ്ടതെന്ന് അറിയാം വിദഗ്ധ തൊഴിലാളികൾ നമുക്ക് അവരെ എങ്ങനെ പരിശീലിപ്പിക്കാനും സംരക്ഷിക്കാനും കഴിയും എന്നത് കേവലം സംരക്ഷണമോ പുനർനിർമ്മാണമോ പുനസ്സ്ഥാപന പ്രക്രിയയോ മാത്രമല്ല പുനസ്സ്ഥാപനത്തിലേക്കും പുനർനിർമ്മാണ വശങ്ങളിലേക്കും പോകാൻ കഴിയുന്ന ഈ ഘടകങ്ങളുടെയെല്ലാം വലിയ കുടയായ ഒരു തരം സംരക്ഷണ പദ്ധതിയായി നമുക്ക് ഇതിനെ വിളിക്കാൻ കഴിയും അവിടെയാണ് ഈ പ്രത്യേക പൈതൃക ഘടനയെന്ന് നിങ്ങൾക്കറിയാവുന്ന ഉൽപ്പന്നത്തിന്റെ ആധികാരികത ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നു എങ്ങനെയാണ് ഇതിന് ഒരു മികച്ച മൂല്യമുള്ളത് അതിനാൽ അത്തരം സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് അത് എങ്ങനെ പ്രതിഫലിപ്പിക്കാം ദുരന്തബാധിത പ്രദേശങ്ങളിൽ സാധാരണ കൈകാര്യം ചെയ്യുന്ന ഞങ്ങളുടെ പതിവ് അഭയവും ഭവന പദ്ധതികളും കൂടാതെ ചില വെല്ലുവിളികളാണ് ഇവ സ്ഥലവും ഐഡന്റിറ്റിയും സ്ഥലവും സ്ഥലം നൽകുന്ന ഐഡന്റിറ്റിയുമായി നമ്മൾ ഇടപെടും സമാന്തരമായി അല്പം സംസാരിക്കാം സ്ഥലത്തെക്കുറിച്ചുള്ള ആശയങ്ങളെയും അതിന്റെ സ്വത്വത്തെയും കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂമിശാസ്ത്രജ്ഞർ നരവംശശാസ്ത്രജ്ഞർ സാമൂഹ്യശാസ്ത്രജ്ഞർ എന്നിവർ വാദിക്കുന്നത് സ്ഥലം ഒരു പ്രദേശിക സഹജാവബോധമാണെന്ന് അവർ വാദിക്കുന്നു അത് ഒരു വ്യക്തിക്ക് സുരക്ഷിതമായി സുഖകരമാണെന്ന് തോന്നുന്ന ഒരു അതിർത്തിയാണ് ഇത് ഒരുതരം അതിജീവന സഹജാവബോധം കൂടിയാണ് ഇത് സാധാരണയായി ഭൂമിശാസ്ത്രപരമായ സ്ഥാനം അക്ഷാംശവും രേഖാംശവും ഉപയോഗിച്ച് പരാമർശിക്കുന്നു മാത്രമല്ല ഇത് അതിന്റെ ഭൌതിക രൂപത്തിലൂടെ പ്രതിഫലിപ്പിക്കുകയും ഭൌതിക സവിശേഷതകൾ ഒരു ഹിൽ വാസ്തുവിദ്യയാണെങ്കിലും തീരദേശ വാസ്തുവിദ്യയാണെങ്കിലും അത് അതിന്റെ സ്വാഭാവിക ക്രമീകരണങ്ങളിലൂടെയും അന്തർനിർമ്മിത ചുറ്റുപാടുകളിലൂടെയുമാണോ കൂടുതൽ പ്രധാനമായി ആളുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികൾ അവയിൽ നിക്ഷേപിക്കുന്ന അർത്ഥങ്ങളുമായും മൂല്യങ്ങളുമായും ഈ സ്ഥലം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇവിടെയാണ് ഐഡന്റിറ്റി വരുന്നത് നിരവധി ഭൂമിശാസ്ത്രജ്ഞർ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതൊരു സാമൂഹിക നിർമിതി ആണെന്നാണ് ഡോറെൻ മാസ്സി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു സാമൂഹിക നിർമിതി ആണെന്നാണ് നമ്മൾ സജീവമായി സ്ഥലങ്ങൾ നിർമ്മിക്കുകയും സ്ഥലത്തെക്കുറിച്ചുള്ള നമ്മുടെ ആശയങ്ങളും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് മനസിലാക്കാൻ ഒരു ചെറിയ ഉദാഹരണം നിങ്ങളിൽ പലരും കാസ്റ്റ് എവേ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവിടെ ടോം ഹാങ്ക്സ് ഒരു കൊറിയക്കാരന്റെ വേഷം ചെയ്തു കൊറിയ ഫ്ലൈറ്റിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു അപകടത്തിൽ പെടുന്നു ഏകാന്തമായ ഒരു അതിജീവനക്കാരനാണ് അദ്ദേഹം ഒരു ദ്വീപിൽ ആരും തന്നെ തൊടാത്ത ഒരു ദ്വീപ് സ്വയം കണ്ടെത്തുന്നു കൂടാതെ 4 വർഷക്കാലം അദ്ദേഹം ആ സ്ഥലത്ത് എങ്ങനെ ജീവിക്കുന്നുവെന്നതാണ് മുഴുവൻ കഥയും ഒരു പരിഷ്കൃത വ്യക്തി യഥാർത്ഥത്തിൽ തനിക്കായി തീ ഉണ്ടാക്കുമ്പോൾ ഉണ്ടായ ആവേശം നോക്കുക അങ്ങനെ അവൻ ഒരു വേട്ടക്കാരനായിത്തീരുന്നു അവൻ തന്റെ ഭവനമായി മാറുന്നു അവൻ സ്വന്തമായി ഒരു സ്ഥലമുണ്ടാക്കുന്നു കഴിഞ്ഞ 4 വർഷമായി അവൻ സ്വന്തം ശീലങ്ങൾ ഉണ്ടാക്കുന്നു അവൻ സ്വന്തം സ്ഥലബോധം വികസിപ്പിക്കുന്നു ഒരു ദിവസം അയാൾക്ക് കരയിൽ നിന്ന് ഒരു ചെറിയ ഭക്ഷണ പാക്കറ്റ് ലഭിക്കുന്നു അത് യഥാർത്ഥത്തിൽ കരയിൽ നിന്ന് പൊങ്ങിക്കിടക്കുന്നു അത് അതേ അപകടത്തിൽ നിന്ന് സംഭവിച്ചതാകാം തുടർന്ന് അയാൾ ഒരു ചെറിയ ഫുട്ബോൾ കണ്ടെത്തുകയും വിൽസൺ എന്ന് പേരിടുകയും ചെയ്യുന്നു ആ ദ്വീപിൽ താമസിച്ച കാലം വിൽസൺ അദ്ദേഹത്തിന് ഒരു കമ്പനിയായി ഇവിടെ അവൻ സംസാരിക്കുന്നു അവൻ വിൽസനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നു വിൽസനെക്കുറിച്ച് സംസാരിക്കുന്നു വിൽസണുമായി സംസാരിക്കുന്നു അവൻ വേദന പങ്കിടുന്നു അവനോട് കോപിക്കുന്നു അതിനാൽ ഇവിടെ അത് ഭക്ഷണത്തിനോ പാർപ്പിടത്തിനോ മാത്രമല്ല ഒരു മനുഷ്യൻ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെടുന്നതെങ്ങനെയെന്നത് ഒരു ജീവിയല്ലെങ്കിലും അയാൾ ഇപ്പോഴും ചില ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു 4 വർഷമായി ഇവിടെ താമസിക്കുന്ന അദ്ദേഹം ഒരു ദിവസം ദേഷ്യപ്പെടുകയും ആ വിൽസനെ പുറത്താക്കുകയും ചെയ്യുന്നു 4 വർഷത്തിനുശേഷം അദ്ദേഹം വീണ്ടും വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തും ആ രാത്രിയിൽ വിൻസനെ കോപത്തോടെ പുറത്താക്കുമ്പോൾ അയാൾ വീണ്ടും പോയി വിൽസനെ തിരയുന്നു അതിനാൽ നിങ്ങൾക്കറിയാവുന്ന പ്രണയവും വികാരങ്ങളും ഒരു ശ്രേണിയിൽ കളിക്കുന്നുവെന്നും ഒരു ചെറിയ ബോട്ടിൽ പ്രധാന ഭൂപ്രദേശത്തേക്ക് തിരിച്ചുപോകുമ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റ് വരുന്നു ഒടുവിൽ അദ്ദേഹത്തിന് വിൽസൺ നഷ്ടപ്പെടുന്നു ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യൻ വളരെയധികം വികാരങ്ങൾ അതിന്റെ മൂല്യങ്ങൾ 4 വർഷം പന്ത് അദ്ദേഹത്തിന് ഒരു ബോധം നൽകി അവിടെയാണ് സ്ഥലങ്ങളെക്കുറിച്ചുള്ള സാക്ക് ടോക്സ് നിലനിൽക്കില്ല സ്ഥലങ്ങൾ ഇല്ലാതെ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നതും വളരെ പ്രധാനമാണ് എന്റെ യാത്ര ആരംഭിച്ച ദുരന്താനന്തര അനുഭവങ്ങളിൽ ചിലത് പോലെ വലതുവശത്ത് വീണ്ടെടുക്കലിൽ ലത്തൂർ ഭൂകമ്പവും ഗുജറാത്ത് ഭൂകമ്പ ജിയോഡെസിക് ഡോമകളുമുണ്ട് ദുരന്താനന്തര സന്ദർഭം എല്ലായ്പ്പോഴും ഗുണഭോക്താക്കൾക്കും ദാതാക്കൾക്കും വളരെ പെട്ടെന്നുള്ള ആവശ്യമായി കാണുന്നു അവർക്ക് ദാതാക്കൾ ഇത് ഒരു വലിയ ആവശ്യകതയാണ് കാരണം അവർക്ക് വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു സഹായഹസ്തം നൽകേണ്ടതുണ്ട് അത്തരം സമ്മർദപൂരിതമായ സാഹചര്യങ്ങളിൽ അവരുടെ കുടുംബങ്ങൾക്ക് അഭയം നൽകേണ്ടതുണ്ട് എന്ന അടിയന്തിര നിബന്ധനയുണ്ട് ആളുകൾ എന്തും സ്വീകരിക്കുന്ന പ്രവണത അവർക്ക് സൌജന്യമായി ലഭിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്നതെന്തും ലത്തൂരിൽ അവസാനിച്ചു ഇന്നും പല വീടുകളും 20 വർഷത്തിലേറെയായി ശൂന്യമാണ് പക്ഷേ അവ ഉപേക്ഷിക്കപ്പെട്ടുവെന്ന് നിങ്ങൾ കണ്ടെത്തിയ പല വീടുകളും ഇപ്പോൾ ഈ സാഹചര്യം ആരംഭിക്കുന്നത് ഞങ്ങൾക്ക് എങ്ങനെയുള്ള ഭവന ആവശ്യകതയാണ് എന്നതിന്റെ സംഭാഷണമായിട്ടാണ് ഇപ്പോൾ വളരെയധികം ഭവന പരിഹാരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആളുകൾക്ക് അത് നിരസിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് കെട്ടിടത്തിനും അപ്പുത്ത് ഒരു വീട് എന്നതിൽ എന്താണുള്ളത് എന്നത് ചോദ്യത്തിന് അതീതമാണ് ആളുകൾ അവരുടെ ഉപജീവനത്തിനായി നിരസിച്ചേക്കാവുന്ന സാമീപ്യം അല്ലെങ്കിൽ അവരുടെ കന്നുകാലികളുടെ ആവശ്യങ്ങൾ അവരുടെ സാമൂഹിക ആവശ്യങ്ങൾക്കൊപ്പം വേറെയും നിരവധി വശങ്ങളുണ്ട് ഈ തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന മറ്റ് പല ശക്തികളും അവിടെയുണ്ട് സുനാമി കഴിഞ്ഞയുടനെ ഞാൻ എൻറെ മാസ്റ്റേഴ്സ് പഠന സമയത്ത് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ആരോവില്ലിൽ ഞാൻ മുമ്പ് ജോലി ചെയ്തിരുന്ന സ്ഥലം സന്ദർശിച്ചുകഴിഞ്ഞാൽ വിവിധ ഏജൻസികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ നോക്കുകയായിരുന്നു ഞാൻ വിവിധ ആർക്കിടെക്റ്റുകളുമായി സംവദിക്കുകയായിരുന്നു അവിടെയാണ് ആരോവിൽ കെട്ടിട കേന്ദ്രം ചില ഭവന നിർമ്മാണ ഓപ്ഷനുകൾ നിർദ്ദേശിക്കുന്നത് നിങ്ങൾ കാണുന്നത് കെട്ടിട മോഡലുകളുടെ കുറച്ച് ഫോട്ടോഗ്രാഫുകളാണ് അവ അവലോകനം ചെയ്ത പരിഹാരങ്ങളാണെന്ന് ആർക്കിടെക്റ്റുകൾ തെളിയിച്ചിട്ടുണ്ട് അവിടെ ജോലിചെയ്ത ശേഷം ആ ആർക്കിടെക്റ്റുകൾ മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ആളുകൾ അവരുടെ മുൻ പ്രോജക്റ്റുകളിൽ നിന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്ന ചിലതരം അനുകരണങ്ങൾ ഉണ്ടെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു വാസ്തുശില്പി സമാനമായ പ്രോജക്റ്റിൽ പ്രവർത്തിച്ചിരിക്കാം ഇതുപോലുള്ള യഥാർത്ഥ പ്രോജക്ടുകളിൽ ഒരു ടെറാക്കോട്ട റൂഫിംഗ് ഘടന ഇത് ഒരു മൊഡ്യൂളായി ലളിതമാക്കി ഒരു ഗ്രാമം വികസിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്റർ വികസിപ്പിക്കുന്നതിനോ ഉള്ള ഒരു സാർവത്രിക പരിഹാരമായി നിർദ്ദേശിക്കുന്നു ഒരു ആർക്കിടെക്ട് ഒരു പ്രൊഫഷണലായി ഇതിനകം തന്നെ ചെയ്തതിൽ നിന്ന് അനുകരണങ്ങൾ എടുക്കുന്നത് ഇവിടെ കാണുവാൻ കഴിയും ഇപ്പോൾ ഉദാഹരണത്തിന് ഇത്തരത്തിലുള്ള ഒരു ഉയർത്തിയ വീടിന്റെ മറ്റൊരു ക്രമീകരണം ഉണ്ട് അതിനാൽ വെള്ളപ്പൊക്കം എങ്ങനെ അത്തരത്തിലുള്ളവയുടെ അടിയിലൂടെ പോകുമെന്ന് വ്യത്യസ്തമായ ചില ധാരണകളുണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ എന്നാൽ ഇവിടെ നിങ്ങൾക്ക് വരാന്ത ആശയം കാണാൻ കഴിയും ഇത് പരമ്പരാഗതമായി നിങ്ങൾക്ക് ഇന്ന് തമിഴ്നാട്ടിലും കാണാം അതിനാൽ പ്ലെയ്സ് സ്പേസ് ഇവയെ കുറിച്ചുള്ള സൈദ്ധാന്തികത സംസാരിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഹെൻറി ലെഫെബ്രെ അദ്ദേഹത്തിൻറെ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പേസ് എന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ സ്പേസ് ഒരു സാമൂഹിക ഉൽപ്പന്നമാണെന്നും അത് ഒരു സൈദ്ധാന്തിക സമ്മേളനങ്ങളും തന്ത്രങ്ങളും പ്രദാനം ചെയ്യുന്നു അതിൽ ശക്തി വാസ്തുവിദ്യ അവയുമായി ബന്ധപ്പെട്ട ഏജൻസികൾ എന്നിവ ദുരന്താനന്തര വീണ്ടെടുക്കലിന്റെ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട രംഗത്ത് സ്ഥലത്തിന്റെ കേന്ദ്രീകരണത്തെ മാറ്റിമറിക്കുകയും സാധ്യതയുള്ളവ ഇല്ലാതാക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത ശക്തികൾക്ക് യഥാർത്ഥത്തിൽ സ്ഥലത്തെ എങ്ങനെ മാറ്റാനും പരിവർത്തനം ചെയ്യാനും കഴിയും മാത്രമല്ല അതിന്റെ അർത്ഥങ്ങൾ മാറ്റുന്നതിനും ഇത് കാരണമാകും അതുകൊണ്ടാണ് ലെഫെബ്രെ സംസാരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് സംക്ഷിപ്തമായി സംസാരിക്കാൻ കഴിയുന്നത് ലെഫെബ്രെ 3 വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഒന്ന് സങ്കൽപ്പിച്ച ഇടം ജീവിച്ചിരിക്കുന്ന സ്ഥലം ആഗ്രഹിച്ച ഇടം ബുദ്ധിശക്തിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ സംസാരിക്കുന്ന സങ്കൽപ്പിച്ച ഇടം ഇവിടെ ഇത് ആസൂത്രകർ സങ്കൽപ്പിച്ചതോ ആയ ഒരു ഇടം കൂടിയാണ് സ്പെയ്സ്ൻന്റെ പ്രാതിനിധ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ശാസ്ത്രജ്ഞൻ തീരുമാനമെടുക്കുന്നവർ വികസിപ്പിച്ച ചില തത്വങ്ങളെക്കുറിച്ചുള്ള ചില ദർശനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളവയാണിത് അവിടെയാണ് ഞങ്ങൾ സങ്കൽപ്പിച്ച ഇടം ഒരു പ്രത്യയശാസ്ത്രവുമായി സംയോജിച്ച് ഒരു അറിവും ശാസ്ത്രവുമാണ് കൂടാതെ ആഗ്രഹിച്ച ഇടം ചലനവും ആശയവിനിമയവും നടക്കുന്ന സ്പേഷ്യൽ പരിശീലനത്തിന്റെ സ്ഥലത്തെക്കുറിച്ചും ബന്ധങ്ങൾ വികസിപ്പിക്കുകയും ഫലവത്താക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്ന രണ്ടാമത്തെ രൂപം ഇവിടെയാണ് ദൈനംദിന ദിനചര്യകളും വ്യക്തിഗത തലവും കൂടാതെ ബന്ധങ്ങൾ നിർമ്മിക്കുന്നതും ഇത് ഒരു വ്യക്തിയിൽ മാത്രമല്ല കൂട്ടായ നിർദ്ദേശങ്ങളാണ് അതിനാൽ ജീവിച്ചിരിക്കുന്ന ഇടം സ്ഥലവും ആയുള്ള മനുഷ്യന്റെ അബോധാവസ്ഥയും വാക്കേതരവുമായ നേരിട്ടുള്ള ബന്ധമാണ് അത് ഒരുതരം പ്രാതിനിധ്യ സ്ഥലമാണ് വിവിധ അസോസിയേഷനുകളിലൂടെ സ്കീമറ്റയിലൂടെ വിവിധ തരത്തിലുള്ള പ്രതീകാത്മക വശങ്ങളിലൂടെയും ഇത് മനസ്സിലാക്കുന്നു ഈ ശൃംഖലകൾ വികസിപ്പിക്കുന്ന സഹജാവബോധം തുടർന്ന് അവബോധം വിവിധ ചിത്രങ്ങളിലൂടെയും പ്രതീകാത്മകതയിലൂടെയും ഇത് എങ്ങനെ മനസ്സിലാക്കാം കാമിലോ ബൊനോയുടെയും വില്യം ഹണ്ടറുടെയും ഒരു പ്രധാന ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രഭാഷണം ആർക്കിടെക്ചർ റിസ്ക് എന്ന ലേഖനം വികസിപ്പിച്ചെടുത്തത് ദുരന്താനന്തര വീണ്ടെടുക്കലിന്റെ അവ്യക്തമായ സ്വഭാവം അതിനാൽ ഒരു സൈദ്ധാന്തിക വീക്ഷണകോണിൽ നിന്ന് ഹ്രസ്വ വശങ്ങളെക്കുറിച്ചും ആ പ്രോജക്റ്റിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെക്കുറിച്ചും വിവിധ ഉദാഹരണങ്ങളോടെ ഞാൻ വിവരിക്കാൻ പോകുന്നു ദുരന്താനന്തര സ്പേഷ്യൽ പ്രാക്ടീസ് സമ്മേളനങ്ങൾ വാസ്തുവിദ്യ ഒരു സിദ്ധാന്തമെന്ന നിലയിൽ അഭയ സമ്പ്രദായങ്ങളുടെ പരിവർത്തന സ്വഭാവത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ദുരന്താനന്തര വീണ്ടെടുക്കലിനുള്ളിൽ നിർമ്മാണ അന്തരീക്ഷം കാരണം ഇത് ഹ്രസ്വകാലത്തെ ഇടത്തരം ദീർഘകാല അഡാപ്റ്റീവ് സമ്പ്രദായങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു പോൾ ഒലിവറിന്റെ സംഭാവനയാണ് ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സംഭാവന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിർമ്മിച്ചതിൽ ഇതിലെ നാലാം ഭാഗത്തിൽ ദുരന്ത സന്ദർഭങ്ങളിലെ സംസ്കാരം ദുരന്തങ്ങൾ വാസസ്ഥലങ്ങൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുന്നു അന്തർനിർമ്മിതമായ പരിസ്ഥിതിയെ ആശ്രയിക്കുന്നത് തന്നെ അപകടസാധ്യത വർദ്ധിപ്പിക്കുന്നു കാരണം നമ്മൾ അന്തർനിർമ്മിതമായ പരിസ്ഥിതിയെ കൂടുതൽ ആശ്രയിക്കുന്നു നമ്മൾ കൂടുതൽ അഭയകേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നു മുമ്പ് മനുഷ്യൻ ഗുഹകളിൽ ഒളിച്ചിരുന്നു ഒരു നാടോടിയായിരുന്നപ്പോൾ അക്കാലത്ത് ദുർബല ഘടകത്തിന് മറ്റൊരു അർത്ഥമുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ ജീവിത ആശ്രയത്വം ഞാൻ അർത്ഥമാക്കുന്നത് നമ്മുടെ ജീവിത ആശ്രയത്വം അന്തർനിർമ്മിതമായ പരിതസ്ഥിതിയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് കപ്പഡോഷ്യയിൽ സെൻട്രൽ അനറ്റോലിയയിലെ ഒരു ഉദാഹരണം ധാരാളം കർഷകർ താമസിക്കുന്നിടത്ത് ലാവാ പൊടിയുടെ പുരാതന നിക്ഷേപങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ രൂപംകൊണ്ട ഈ ട്യൂഫ റോക്ക് പിനാക്കലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കൂടാതെ വായുവിലേക്ക് ഇതിൽ തുറന്നിരിക്കുന്നതിനാൽ ഈ മൃദുവായ പാറ കട്ടിയുള്ളതാകുന്നു ഉൾവശം ഉറച്ച മതിലുകളും ആണ് അതിനാൽ ആളുകൾ എല്ലാ ചെറിയ വാസസ്ഥലങ്ങളിലും താമസിക്കാൻ തുടങ്ങി ആളുകൾ ആ വീടുകളിൽ താമസിക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാവുന്നതുപോലെ ഫോൾട് ലൈൻ ടർക്കിയിലൂടെ കടന്നുപോകുന്നു ഇത് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ കൊടുമുടികൾ പലപ്പോഴും വാസസ്ഥലങ്ങളെ നശിപ്പിക്കും അവയിൽ പലതും കാവുസിൻ ഉള്ളതായി കാണാം അത് ഗ്രീക്ക് ഗ്രാമമാണ് ഈ ആളുകൾക്ക് തിരിച്ചുപോകാനും മറ്റെവിടെയെങ്കിലും സ്ഥിരതാമസമാക്കാനും അവസരം നൽകിയിട്ടും അവർ തിരിച്ചെത്തി മറ്റ് പല കാരണങ്ങളാൽ അവർ സ്ഥിരതാമസമാക്കി കാരണം ടൂറിസം ഒന്നാണ് പ്രധാന ഘടകം ആളുകൾ വരുന്നതിനാലാണ് അവരുടെ ഉപജീവനമാർഗ്ഗം അടിസ്ഥാനമാക്കിയുള്ളത് മറ്റ് അനുബന്ധ കാരണങ്ങളുമുണ്ട് വീടുകളുടെ ഭൌതികതയും സ്ഥലങ്ങളുടെ പ്രശ്നവുമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ഉദാഹരണം ഇത് സിസിലിയിലെ ഗിബെല്ലിനയിൽ 1968 ൽ അക്രമാസക്തമായിരുന്ന ഭൂകമ്പത്തിൽ ഒരു ലക്ഷത്തോളം പേർ ഭവനരഹിതരായി ഗിബെല്ലിനയുടെ നഗര പുനർനിർമ്മാണത്തിലൂടെ സാംസ്കാരിക നവോത്ഥാനത്തെക്കുറിച്ച് മേയർ കോറ സംസാരിച്ചത് ഇങ്ങനെയാണ് ഇത് 5000 വാസസ്ഥലങ്ങൾ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ 50000 ആളുകൾക്കുള്ള പ്രൊജക്റ്റ് ചെയ്തു നിങ്ങൾ വലിയ സ്ക്വയറുകളിലേക്ക് നോക്കിയാൽ വാസ്തുവിദ്യയുടെ സ്മാരക വശം ഇന്ന് നിങ്ങൾ ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഒന്നും ഉണ്ടായിരുന്നില്ല അതിനാൽ പദ്ധതിയുടെ വിശാലത വളരെ വലുതാണ് നിങ്ങൾക്ക് നേരത്തെ കാണാൻ കഴിയുന്ന പാർപ്പിടം അയൽക്കാരുമായുള്ള അനൌചാരിപചാരിക ഇടപെടലാണ് മുൻവശത്തെ പൂന്തോട്ടം ഉള്ളതിനാൽ തെരുവിൽ നിന്ന് വീടിനെ വേർതിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ അയൽവാസികളെ വേർതിരിക്കുന്നു അതിനാൽ വാരാന്ത്യത്തിൽ ഉള്ള സാമൂഹിക ഇടപെടലുകളും പാർക്കിംഗിന്റെ തോതും കാരണം അവർ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വിശാലത പ്രോജക്ടിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ പ്രത്യേക സ്ക്വയറുകളിൽ അവർ ചില കലാകാരന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് വിവിധ കലാകാരന്മാർ ഇത് ഒരു വലിയ മത്സരം പോലെയാക്കി തീർത്തിരുന്നു അവിടെ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ നിരവധി സൃഷ്ടിപരമായ ആളുകളെ ക്ഷണിച്ചു ഈ പ്രത്യേക സ്ഥലം രൂപകൽപ്പന ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു നിരവധി കലാകാരന്മാർ വന്നു അവർ അതിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഇതെല്ലാം കമ്മ്യൂണിറ്റിയെ ഒന്നിച്ച് ആകർഷിക്കുന്നതിനുള്ള ചില പ്രവർത്തികൾ ആയിരുന്നു അവർക്ക് പരിശീലനം നടത്താനും അവർക്ക് പങ്കാളിത്ത സമീപനങ്ങൾ വികസിപ്പിക്കാനും കഴിയും എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് മറ്റ് പല ഫണ്ടിംഗ് പ്രശ്നങ്ങളും കാരണം ഇന്ന് ഈ കരകരകൌശല വസ്തുക്കൾ പലതും പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടവയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അവിടെ ധാരാളം ആളുകളില്ല അവരുടെ സാമ്പത്തിക പുനരുജ്ജീവനവും മറ്റ് നിരവധി പ്രശ്നങ്ങളുടെ പരിപാലന വശങ്ങളും കാരണം മുമ്പ് ബാധിച്ച ഒരു സൈറ്റാണിത് ദി ക്രെറ്റോ ആൽബർട്ടോ ബുറി 12 ഹെക്ടറിൽ വികസിപ്പിച്ചെടുത്ത ഒരു സ്മാരകമാണ് ഇത് ഗ്രാമത്തിലെ സെറ്റിൽമെൻന്റിന്റെ മുഴുവൻ രൂപഘടനയും ഒരു മീറ്റർ ഉയരത്തിലുള്ള കോൺക്രീറ്റ് കുന്നുകളായി നിർമ്മിച്ചു അങ്ങനെ അത് ഒരു കൂട്ടായ മെമ്മറിയായി മാറുന്നു അതിനാൽ പഴയ നഗരത്തിന്റെ കൂട്ടായ മെമ്മറിക്ക് വിനാശത്തിന്റെയും വേദനയുടെയും ഒരിടം ഒരു കലാസൃഷ്ടിയാക്കി മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നു എന്നാൽ നമുക്ക് സമാനമായി കാണാൻ കഴിയുന്നത് ക്രെറ്റോയ്ക്കും ഗിബെല്ലിന ന്യൂവയ്ക്കും ഒരു പൊതുവായ കാര്യമുണ്ട് അത് നിശബ്ദതയാണ് ആദ്യത്തേത് സിമന്റിന്റെ ആവരണത്തിൻ കീഴിൽ എന്നെന്നേക്കുമായി പിടിച്ചെടുക്കപ്പെടുന്ന ഒരു നഗരമാണ് ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി പുരാവസ്തുശാസ്ത്രത്തിന്റെ പുരാവസ്തുമായ ക്രെറ്റോ പിടിച്ചെടുത്തു രണ്ടാമത്തേത് വീടുകൾ സ്ക്വയറുകൾ സ്മാരകങ്ങൾ പൂർത്തീകരിക്കാത്ത അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ ശ്മശാനമാണ് അതിനാൽ അത് ഒരുദാഹരണമാണ് സ്ഥലത്തിന്റെ ദാർശനിക വശത്തെക്കുറിച്ചും പ്രത്യേകിച്ചും നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തെക്കുറിച്ചും ആവാസവ്യവസ്ഥയും ശീലങ്ങളും പരസ്പരം ഇടപഴകുന്ന ദിവസങ്ങളിൽ ചില വൈകാരിക ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കുമ്പോൾ സ്ഥലവും ആവാസവ്യവസ്ഥയും അവിടെയാണ് കിം ഡോവിയും സംസാരിക്കുന്ന ആവാസവ്യവസ്ഥയും രണ്ടാം ജനനത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നു രണ്ടാം ജനനത്തെക്കുറിച്ച് ബോർഡ്യൂ സംസാരിക്കുന്നു ഇവ ഐകിയ സൃഷ്ടിച്ച ചില അഭയാർഥി വീടുകളാണ് സിറിയയിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഉള്ള ആളുകൾക്ക് ഈ തരത്തിലുള്ള പ്രിഫാബ് ഘടകങ്ങൾ ഉപയോഗിക്കാൻ നിർബന്ധിതമായി നൽകി അത് ഒരു കൂടാരനഗരങ്ങളാകാം അത് ക്യാമ്പുകളാകാം മറ്റ് പല രൂപങ്ങളാകാം കാരണം അവർ മറ്റൊരു മേഖലയിലേക്ക് പ്രവേശിക്കാൻ നിർബന്ധിതരാകുന്നു അതിനാൽ അവിടെ അവർ മറ്റൊരു പരിശീലനം വ്യത്യസ്ത നിയമങ്ങൾ വ്യത്യസ്ത പ്രക്രിയകൾ പഠിക്കേണ്ടതുണ്ട് അവർ ആഫ്രിക്കയിൽ എങ്ങനെ ജീവിച്ചിരുന്നു അവർ സിറിയയിൽ എങ്ങനെ താമസിച്ചു അവർ അഫ്ഗാനിസ്ഥാനിൽ എങ്ങനെ ജീവിച്ചു അവർ തുർക്കിയിൽ സ്ഥാപിച്ച കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബെൽജിയത്തിൽ സ്ഥാപിച്ച കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തമാണ് പുതിയ ഫീൽഡും പുതിയ ഗെയിം നിയമങ്ങളും അവർ പൊരുത്തപ്പെടുത്തേണ്ട രീതിയിലേക്ക് പൊരുത്തപ്പെടാൻ സമയമെടുക്കുന്നത് അവിടെയാണ് വീടിന്റെ ലളിതമായ സാന്നിധ്യം അല്ലെങ്കിൽ അഭാവം അഭയത്തിന്റെ ശാരീരിക പര്യാപ്തത എന്നിവയേക്കാൾ വീടും വീടില്ലാത്തതും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണ്ണമാണ് അതിനാൽ ഇത് കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല അതിന് കൂടുതൽ അർത്ഥങ്ങളുണ്ട് മറ്റൊരു വശം പരിശീലനവും അച്ചടക്കവും പോലെ അന്തർലീനമായ സങ്കീർണ്ണത ഒരു ദുരന്തത്തെ തുടർന്ന് അഭയം നൽകുന്നതിന് ഒരു സാംസ്കാരിക സന്ദർഭം പോലും ഉണ്ടായിരുന്നില്ല ഇത് എല്ലായ്പ്പോഴും 2 ആണ് അവ വ്യത്യസ്തമായവയാണ് ഒന്ന് ഉള്ളവരും മറ്റൊന്ന് ഇല്ലാത്തവർ ശക്തരും ശക്തിയില്ലാത്തവരും ദുരിതാശ്വാസ സംഘടനകളും ഇരകളും അതിനാൽ പ്രക്രിയയുടെ 2 ഭാഷകളും ഉണ്ട് ഒന്ന് നൽകുന്നയാൾ മറ്റൊന്ന് എടുക്കുന്നയാൾ ഒരാൾ ഉദ്ദേശിക്കുന്നയാൾ മറ്റൊന്ന് ഇരയാണ് ഒരു സാമൂഹ്യവ്യവസ്ഥയിലെ പല അംഗങ്ങൾക്കും ആ വ്യവസ്ഥയിൽ നിന്ന് പ്രതീക്ഷിച്ച ജീവിത സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ സംഭവിക്കുന്ന വലിയ കൂട്ടായ സമ്മർദ്ദ സാഹചര്യങ്ങളുടെ ഭാഗമായി അലൻ ബാർട്ടന്റെ പരിചിതമായ ദുരന്തം ഏറ്റവും പ്രധാനമായി പ്രത്യേകിച്ചും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ദുരിതാശ്വാസ സംസ്കാരം പരിചിതവും പ്രയോഗവുമുള്ള സംവിധാനങ്ങൾക്ക് അനുകൂലമായി പരമ്പരാഗതവും പ്രാദേശികവുമായ സംഘടനകൾ നിരസിക്കാൻ സാധ്യതയുണ്ട് ദുരിതാശ്വാസ സംഘടനകൾ ഇത് ഒരു ലോകകാഴ്ചയാണോ അത് ഓക്സ്ഫാം ആണോ അതോ മറ്റേതെങ്കിലും ക്രിസ്ത്യൻ സഹായമാണോ അല്ലെങ്കിൽ ഈ ബാധിത പ്രദേശങ്ങളിലേക്ക് വരുന്ന മറ്റേതെങ്കിലും സംഘടനയെ റെഡ് ക്രോസ് ആണോ ഒരു പ്രാദേശിക സംവിധാനം എന്താണെന്ന് പോലും അവർ പരിഗണിക്കുന്നില്ല അതിനാൽ പ്രാദേശിക സംവിധാനങ്ങളിൽ ഇത് പരമ്പരാഗതമാണെന്ന് അവർ വിശ്വസിക്കുന്നു പ്രാദേശിക പരമ്പരാഗത തദ്ദേശീയ സമ്പ്രദായത്തിന്റെ ദുരന്തത്തെ മുൻകൂട്ടി അറിയുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഇരയുടെ സംസ്കാരം ബോധവാന്മാരാക്കുന്നു അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോൾ നേരിടാൻ കഴിയും പരമ്പരാഗത മോഡലുകളാണ് ഈ പരാജയങ്ങൾക്ക് കാരണമെന്ന് ഇരകളെ മനസ്സിലാക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തി അത് ഗൌരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മറ്റെവിടെയെങ്കിലും നിന്നാണ് വരുന്നത് എന്നാൽ പിന്നീട് ഒരു ധാരണയുടെ അഭാവം മനസിലാക്കാതെ അവരുടെ സിസ്റ്റം തികച്ചും പരാജയമാണെന്ന് ഞങ്ങൾ അവരെ ബോധവൽക്കരിക്കുന്നു പങ്കാളിത്ത രീതികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു മിക്ക കേസുകളിലും നമ്മൾ മോഡലുകൾ ചെയ്തുവെന്ന് കാണാം ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ചോയ്സ് നൽകുന്നു ഒന്ന് തിരഞ്ഞെടുക്കുക എന്നിട്ട് എനിക്ക് ലഭിക്കുന്നതെല്ലാം സൌജന്യമായി എടുക്കട്ടെ എന്ന് പാവം ചിന്തിക്കുന്നു ദുരന്തത്തിന് മുമ്പും ദുരന്തത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ അവസ്ഥ വ്യത്യസ്തമാണ് സാഹചര്യത്തിന്റെ ചലനാത്മകത സാഹചര്യപരമായ വശം കാലാകാലങ്ങളിൽ മാറുന്നു പങ്കാളിത്തത്തെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ പങ്കാളിത്തം എന്താണ് അർത്ഥമാക്കുന്നത് ആർക്കാണ് ഇത് നൽകുന്നത് ഏറ്റവും അവ്യക്തമായ പദങ്ങൾ ഏറ്റവും ശക്തമായ ആശയങ്ങൾ എന്നിവ വ്യാഖ്യാനിക്കണം അതിനാൽ ആ പങ്കാളിത്തത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായിരിക്കേണ്ടതുണ്ട് ഈ മോഡലുകൾ പലപ്പോഴും ഫലങ്ങൾ നൽകുന്ന പരിഹാരങ്ങളുടെ ടോപ്പ് ഡൌൺ നടപ്പിലാക്കൽ പ്രേരണയാൽ നയിക്കപ്പെടുന്നു അവ പലപ്പോഴും ഒരു ഫലം പ്രതീക്ഷിക്കുന്നു അത് ഒരു വാസസ്ഥലമാണോ അത് ഒരു ആവാസവ്യവസ്ഥയാണോ ഒരു ക്ലസ്റ്ററാണോ പ്രോജക്റ്റ് മോഡ് കാരണം പരിമിതമായ വൈവിധ്യമാർന്ന ഇടപെടലുകളുടെസവിശേഷത അതിനാൽ അവർ പരിമിതമായ വൈവിധ്യമാർന്ന ഇടപെടലുകളും ദാതാക്കളുടെയും ഏജൻസികളുടെയും വിഭജനം നിർബന്ധിതമായി അംഗവൈകല്യമുള്ള ജനസംഖ്യ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ അവശ്യഘടകങ്ങൾ എന്നിവ പരിശോധിക്കാൻ ശ്രമിക്കുന്നു ഇത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി മാത്രമല്ല അത് അഭയം കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് മറ്റൊന്ന് സർവേകൾ കൈകാര്യം ചെയ്യുന്നു മറ്റൊന്ന് അവരുടെ ഉപജീവനമാർഗ്ഗം കൈകാര്യം ചെയ്യുന്നു അതിനാൽ വിവിധ വിഘടിച്ച ഏജൻസികൾ ഒരു ഗുണഭോക്തൃ സമൂഹത്തെ വിവിധ കോണുകളിൽ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു അതിനാൽ എല്ലായ്പ്പോഴും ഒരു ഡയലോഗ് ഉണ്ട് ഇതിനുള്ളിൽ ഒരു വിടവും ഉണ്ട് മറ്റൊരു വശമാണ് ഒരു നിയന്ത്രണ മാതൃക യാഥാസ്ഥിതിക അനുഭാവികളുടെ ചെറുത്തുനിൽപ്പിനെതിരെ സംഘടനകൾ പോരാടുന്ന സഹായ വ്യവസായ സംസ്കാരം അവർ ധനസഹായം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നും നിക്ഷേപിക്കാൻ തയ്യാറാകുന്നില്ല അവിടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എന്തും അംഗീകരിക്കാൻ റെഗുലേറ്റർമാർ വിമുഖത കാണിക്കുന്നു അതിനാൽ സഹായ ഏജൻസികൾ പോലും ചില പരീക്ഷണങ്ങളും പിശകുകളും വികസിപ്പിച്ചെടുത്തിരിക്കാം അവർ ചില മോഡലുകൾ പരീക്ഷിച്ചിരിക്കാം ഇത് ജപ്പാനാണോ ചൈനയാണോ ഇന്ത്യയാണോ ശ്രീലങ്കയാണോ ഇവ നടപ്പിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു അത് ബംഗ്ലാദേശാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു പേപ്പർ മാലിന്യ ഘടനയാണ് അതായത് ഘടന പേപ്പർ മാലിന്യങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അത് അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടെയും ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചേക്കാം അതിനാൽ അവർ ഇതിനകം തന്നെ ധനസഹായം ചെയ്തവയിൽ ഇതിനകം തന്നെ പരീക്ഷിച്ചവയിൽ നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ അംഗീകാരമുള്ള അധികാരികൾക്ക് ചില പുതിയ കാര്യങ്ങൾ അംഗീകരിക്കുന്നതിൽ ഒരു വെല്ലുവിളിയുണ്ടെന്നും അവർ കരുതുന്നു കാരണം ഇത് എങ്ങനെ സാധൂകരിക്കപ്പെടണമെന്നും ഇത് എങ്ങനെ പരീക്ഷിക്കാം എന്നും ടെക്നോക്രസിയും പങ്കാളിത്ത വാചാടോപവും ദുരന്ത പശ്ചാത്തലത്തിൽ വാസ്തുവിദ്യാ തൊഴിൽ ഒരു ഏക ദർശനത്തിൽ നിന്ന് പങ്കിട്ട ദർശനത്തിലേക്ക് മാറിയ ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത് പങ്കാളിത്ത സമീപനങ്ങൾ മൈക്കൽ ലിയോണും മറ്റ് രചയിതാക്കളും തെളിയിച്ചയിടത്ത് മികച്ച പുനർനിർമ്മാണത്തിൻറെ ആദ്യ പതിപ്പിൽ വിജയകരവും വ്യക്തമായും ഓരോ സമീപനങ്ങളുടെയും ഗുണദോഷങ്ങൾ അടങ്ങിയ വിവിധ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നു തെക്കേ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സൊസൈറ്റിക്കായി ബെന്നി കുറിയാക്കോസ് ചെയ്ത ഉദാഹരണങ്ങളിൽ കാണുന്നത് പോലെ മിക്കവരും ആളുകളെ കേന്ദ്രമാക്കിയുള്ള പ്രവർത്തനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഡോക്യുമെന്റേഷൻ മുതൽ ഡിസൈൻ വരെയും പൂർത്തീകരണം പ്രക്രിയയിലേക്കും ഓരോരുത്തരെയും കൺസൾട്ടേഷൻ ചെയ്തു പൂർത്തിയാക്കുന്നതിനുള്ള ഒരു അടിത്തറയുള്ള സമീപനമാണ് അദ്ദേഹം നടപ്പിലാക്കിയത് ബെർൻസ്റ്റൈൻ സുഷമ അയ്യങ്കാർ എന്നിവരെ നിങ്ങൾക്കറിയാവുന്നിടത്ത് ഭവന നിർമ്മാണത്തിൽ നിന്നുള്ള മാതൃകകൾ എങ്ങനെയാണ് സ്വയം നിർമ്മിത ഭവനങ്ങളിൽ നിന്നും സുരക്ഷിതമായ കരാറുകാരൻ നയിക്കുന്നതിലേക്ക് മാറിയതെന്നും ഉടമസ്ഥർ നയിക്കുന്ന ആമുഖ സമീപനങ്ങളെക്കുറിച്ചും അവർ സംസാരിച്ചു കൂടാതെ ഉടമസ്ഥതയിലുള്ള പ്രക്രിയയെ വിവിധ കൂട്ടിച്ചേർക്കലുകളെക്കുറിച്ച് ആ പ്രത്യേക മോണോഗ്രാഫ് ചർച്ച ചെയ്യുന്ന മറ്റ് വശങ്ങളും ഉണ്ട് ഒരു സമയം ഒരു കുടുംബം എങ്ങനെ ഒരു വീട്ടിൽ നിന്ന് 100 ഇരട്ടി ആവുകയും ഒരു ക്ലസ്റ്ററിൽ നിന്ന് നിരവധി ക്ലസ്റ്ററുകളിലേക്ക് പകർത്തുകയും ചെയ്യുന്നു അതിനാൽ തന്നെ ഉടമസ്ഥൻ നയിക്കുന്നതും കരാറുകാരൻ നയിക്കുന്നതുമായ വ്യത്യസ്ത പ്രക്രിയകൾ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ചും അതിന്റെ അന്തർനിർമ്മിത ഫോമുകളുടെ മുന്നേറ്റം അവ എങ്ങനെ ഒരു സ്കീമറ്റ അല്ലെങ്കിൽ ഒരു മോഡൽ വികസിപ്പിക്കുന്നു തുടർന്ന് ഒരു ക്ലസ്റ്ററിന്റെ സ്കെയിലിൽ ആ മുഴുവൻ മോഡലിലും ഒരു സെറ്റിൽമെന്റിന്റെ സ്കെയിലിലാണോ എന്ന് അവർക്ക് എങ്ങനെ ആവർത്തിക്കാനാകും അങ്ങനെയാണ് അവ ഓരോ മോഡലിന്റെയും ഗുണദോഷങ്ങൾ ആവുന്നത് കൂടാതെ ഭൂമിയുടെ കാലാവധിയും ഉടമസ്ഥാവകാശവും സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട് മുമ്പ് വീടുകളുള്ളവരും എന്നാൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുമായ ആളുകൾ ഒരുപക്ഷേ സഹായ ഏജൻസി പിന്തുണ നൽകുമ്പോൾ അവർ കാലാവധി മുഴുവൻ നൽകില്ലായിരിക്കാം എന്നാൽ കുറച്ച് പണമുള്ള വീടുകളില്ലാത്ത ആളുകൾക്ക് ഇപ്പോൾ ഭൂമി വാങ്ങാൻ കഴിയുന്നു അവർക്ക് ഒരു കാലാവധിയുണ്ട് അതിനാൽ കാലാവധിയിലും ഉടമസ്ഥാവകാശത്തിലും എല്ലായ്പ്പോഴും പൊരുത്തക്കേടുകൾ സംഭവിക്കുന്നു സഹായ ഏജൻസികൾക്ക് നൽകിയ പ്രതികരണങ്ങളും ആളുകൾ വികസിപ്പിച്ച കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു വ്യക്തിഗതമാക്കൽ എല്ലായ്പ്പോഴും ഉണ്ട് അത് ഒരു അടുക്കളയാണോ അത് ഒരു മതമാണോ സാംസ്കാരിക പോരായ്മകളോടുള്ള സ്വാഭാവിക പ്രതികരണമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഒരു ടോയ്ലറ്റ് ഒരു ആരാധനാലയം ആയി പരിവർത്തനം ചെയ്ത സ്ഥലം അതിനർത്ഥം മതപരമായ കാര്യങ്ങളുമായി കൂടുതൽ ബന്ധമുണ്ട് രണ്ട് സഹോദരന്മാർ ഒരു കുടുംബത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഒരൊറ്റ മേൽക്കൂര നീട്ടി അതിനാൽ ഒരു കുടുംബമുണ്ട് സുനാമിയിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവർക്ക് യഥാർത്ഥത്തിൽ ഉപജീവനമാർഗമില്ല അങ്ങനെ അവൾ ഒരു വീട് വികസിപ്പിച്ചു ആളുകൾക്ക് കളിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ അവർ സമീപത്തുള്ള പൊതു സ്ഥലങ്ങൾ കൈയേറ്റം തുടങ്ങി അതിനാൽ ഈ സ്ഥലം എങ്ങനെ കീഴടക്കി ഈ സ്ഥലം എങ്ങനെ പരിഷ്ക്കരിച്ചു എന്നതിന് നിരവധി മാനങ്ങളുണ്ട് സാധാരണവും ദുരന്തങ്ങളുടെ ഒരു സാധാരണതയും ദുരിതാശ്വാസ ഏജൻസികൾ സാധാരണഗതിയിൽ ഭവന വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു വികസ്വര രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിലുള്ള സാമൂഹിക ഭവന പദ്ധതികളിൽ പരിചയമില്ലെന്നും ധനകാര്യ സംവിധാനങ്ങളില്ലെന്നും ചിലപ്പോൾ അവർക്ക് ധനികവും സ്ഥാപിതവുമായ അനൌപചാരിക മേഖല ഉണ്ടെന്നും കരുതുക അതിനാൽ ഇത് ഒരുതരം വിശ്വാസ സമ്പ്രദായമാണ് ദുരിതാശ്വാസ ഏജൻസികൾ സഹായ ഏജൻസികൾ വികസ്വര രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ സ്വയം നിർമ്മിത പ്രോഗ്രാമുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന അനുഭവം ഈ ആളുകൾക്ക് ഇല്ലെന്ന് അവർ കരുതുന്നു അവരുടെ പങ്കാളിത്ത സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് അന്ധമായ വിശ്വാസമാണ് ഈ രേഖ ചിത്രത്തിൽ നിന്നും മനസ്സിലാവുന്നത് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ബൊനോയും വില്യം ഹണ്ടറും എവിടെയെല്ലാം പുനർനിർമ്മാണം നടക്കുന്നു അതിനെ ഒരു നല്ല ആശയപരമായ രേഖാചിത്രത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട് വ്യത്യസ്ത ശക്തികളുമായി ഇത് എങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നു ഒന്ന് ഒരു പ്രഭാഷണമാണ് അവിടെ ദുരന്തങ്ങൾ പുനർനിർമ്മാണങ്ങളും സാധാരണ വികസന പ്രക്രിയകളും പ്രവർത്തിക്കുന്നു നമുക്ക് ഓപ്ഷനും ചോയിസുകളും ഉണ്ട് നമുക്ക് സ്ഥലംമാറ്റ ഓപ്ഷനുകൾ ഉണ്ട് നമുക്ക് സ്ഥലമുണ്ട് നമുക്ക് ബിൽഡിംഗ് ടൈപ്പോളജികളുണ്ട് നമുക്ക് അന്താരാഷ്ട്ര മത്സരങ്ങളുണ്ട് അതിനാൽ ഓപ്ഷനുകളും ചോയിസുകളും മുന്നോട്ട് വരുന്നു അത് ഒരു കൂട്ടം ശക്തിയാണ് ഭൂപ്രശ്നങ്ങളും കാലാവധിയും അതാണ് നിങ്ങളുമായി ഞാൻ ചർച്ച ചെയ്തത് ഉടമസ്ഥാവകാശം വാടകയ്ക്ക് കൊടുക്കൽ ചൂഷണം എന്നിവ ഭൌതികത നാശത്തിന്റെ തോത് ആവർത്തിച്ചുള്ള സാങ്കേതികവിദ്യ ദുരന്തത്തിന്റെ ഭൂമിശാസ്ത്രം സ്ഥലംമാറ്റം ഭവന തരം നിർമ്മാണ വ്യവസായം സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക സങ്കീർണ്ണതകൾ ദാരിദ്ര്യം എന്നിവയ്ക്ക് ദുരന്തസാധ്യതയുമായും അപകടസാധ്യതയുമായും നേരിട്ട് സമവാക്യം ഉണ്ട് പലപ്പോഴും ദുരന്തം ബാധിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട പ്രാതിനിധ്യ സംവിധാനങ്ങൾ ശക്തി അത് ഒരു പ്രാദേശിക ഗവൺമെന്റാണെങ്കിലും അത് ഒരു ഏജൻസിയായാലും അത് ഒരു ഫ്യൂഡൽ സംവിധാനമായാലും പ്രത്യയശാസ്ത്രങ്ങൾ അവർ എങ്ങനെ വികസനം ആവിഷ്കരിക്കുന്നതെന്ന് രൂപപ്പെടുത്തുന്നു വികസനത്തിനും ധനസഹായത്തിനും നയങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള രാഷ്ട്രീയ ശേഷി അതിനാൽ ചുരുക്കത്തിൽ ഇയാൻ ഡേവിസ് പ്രതിഫലിപ്പിക്കുന്നു ഷെൽട്ടർ ഒരു പ്രക്രിയയായി കണക്കാക്കണം പക്ഷേ ഒരു വസ്തുവായിട്ടല്ല കൂടാതെ നമ്മുടെ ദൈനംദിന സാഹചര്യങ്ങളിൽ അഭിമുഖീകരിക്കുന്ന ഈ കേസുകളും ഉദാഹരണങ്ങളും നിരീക്ഷണങ്ങൾ ഭവന നിർമ്മാണത്തിനോ ദുരന്തങ്ങൾക്കുശേഷം പുനർനിർമ്മിക്കുന്നതിനോ കൂടുതൽ സാംസ്കാരികമായി തന്ത്രപ്രധാനമായ സമീപനത്തിനുള്ള ഒരു വഴി തുറക്കുന്നു അതിനാൽ സംസ്കാരം വളരെ പ്രധാനമാണ് സ്ഥലത്തെയും ഇടത്തെയും കുറിച്ചുള്ള ദാർശനിക ഗ്രാഹ്യത്തെക്കുറിച്ചും ഒരു സ്ഥലം നിർമ്മിക്കുന്ന പ്രക്രിയയെക്കുറിച്ചും ഒരു വാസ്തുശില്പി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് മാത്രമല്ല ഈ പ്രത്യേക വിഷയത്തിന് കൂടുതൽ പ്രതിഫലനം ആവശ്യമാണ് പരിശീലനത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നത് വളരെ പ്രധാനമാണെന്ന് അറിയുക നിങ്ങൾക്ക് മനസ്സിലായി എന്നു കരുതുന്നു വളരെ നന്ദി